ഈ മൊഡ്യൂളിലേക്കു സ്വാഗതം ബാൻഡ് പാസ് ഫിൽറ്ററുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഉപയോഗമാണ് ഇവിടെ നാം മനസിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മളെന്തെല്ലാം കണ്ടു നിങ്ങൾക്ക് ഹൈ ഫ്രീക്വൻസി കടത്തിവിടണമെങ്കിൽ ഒരു ഹൈ പാസ് ഫിൽറ്റർ രൂപകല്പന ചെയ്യണം അതേപോലെ ലോ ബാൻഡ് ഫ്രീക്വൻസിയാണ് കടത്തിവിടേണ്ടതെങ്കിൽ ലോ പാസ് ഫിൽറ്റർ രൂപകല്പന ചെയ്യണം ഇനി നമുക്ക് ഒരു നിശ്ചിത ബാൻഡ് ഫ്രീക്വൻസി മാത്രമാണ് കടത്തിവിടേണ്ടതെങ്കിലോ താഴ്ന്നതുമല്ല ഉയർന്നതുമല്ല എന്നാൽ നമുക്ക് കടത്തിവിടേണ്ടത് ഇതിനു രണ്ടിനുമിടയ്ക്ക് ഒരു നിശ്ചിത കൂട്ടം ഫ്രീക്വൻസികളാണ് നോക്കൂ നാം തുടർച്ചയായി ഫ്രീക്വൻസിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ പ്രത്യേക ഫിൽറ്റർ സെഷന്റെ തുടക്കത്തിൽ നാം പറഞ്ഞിരുന്നു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളിൽ ഏറ്റവും പ്രധാനമായതും ഏറ്റവുമധികം ഉപയോഗിക്കുന്നതുമായ സർക്യൂട്ടുകളാണ് ഫിൽറ്ററുകളെന്ന് അതുകൊണ്ടാണ് നാം ഫ്രീക്വൻസിയെക്കുറിച്ച് തുടർച്ചയായി പറയുന്നത് അപ്പോൾ എനിക്ക് ഒരു നിശ്ചിത ബാൻഡ് ഫ്രീക്വൻസിയാണ് കടത്തിവിടേണ്ടതെങ്കിൽ ഞാനൊരു ബാൻഡ് പാസ് ഫിൽറ്ററാണ് രൂപകല്പന ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ബാൻഡ് പാസ് ഫിൽറ്റർ രൂപകല്പന ചെയ്യുക ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ സഹായത്തോടെ നമുക്കതു ചെയ്യാനാകുമോ നാം ഈ മൊഡ്യൂളിൽ മനസിലാക്കാനിരിക്കുന്ന ആശയത്തിന്റെ സംഗ്രഹം ഇതാണ് നമ്മുടെ കൈവശമുള്ള ഉപകരണങ്ങളായ ഡിസി പവർ സപ്ലൈ ഓസിലോസ്കോപ്പ് ഫങ്ഷൻ ജനറേറ്റർ ബ്രെഡ്ബോർഡ് മൾട്ടിമീറ്റർ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്നിവ പ്രയോജനപ്പെടുത്തി ബാൻഡ് പാസ് ഫിൽറ്റർ രൂപകല്പനചെയ്യാം അതിനു മുമ്പ് എന്താണ് യഥാർഥത്തിൽ ഈ ബാൻഡ് പാസ് ഫിൽറ്റർ എന്നത് പരിശോധിക്കാം നാം ഈ തിയറി നേരത്തേ കണ്ടിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടി ആവർത്തിക്കാം നിങ്ങളത് മറുന്നുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ബാൻഡ് പാസ് ഫിൽറ്ററിന്റെയോ മറ്റേതെങ്കിലും ഫിൽറ്ററിന്റെയോ ഏറ്റവും പ്രധാന സവിശേഷത ഒരു നിശ്ചിത ബാൻഡ് ഫ്രീക്വൻസി മാത്രം കടത്തിവിടുക എന്നുള്ളതാണ് ആ ഫ്രീക്വൻസിയുടെ ശേഷി കുറയ്ക്കാതെയാണ് ഫിൽറ്ററുകൾ കടത്തിവിടേണ്ടത് ലോ ഫ്രീക്വൻസി ബാൻഡിന് ലോ പാസ് ഫിൽറ്ററും ഹൈ ഫ്രീക്വൻസി ബാൻഡിന് ഹൈ പാസ് ഫിൽറ്ററും ആകാം നാം കടത്തിവിടാൻ ആഗ്രഹിക്കുന്ന ഫ്രീക്വൻസിക്ക് യാതൊരു ശോഷണവും സംഭവിക്കരുത് അതുകൊണ്ടാണ് ആ ബാൻഡിനെ പാസ് ബാൻഡ് എന്നു വിളിക്കുന്നത് അതേസയം മറ്റു ബാൻഡുകൾക്ക് ശക്തി കുറയുന്നതിനാൽ അവയെ സ്റ്റോപ് ബാൻഡ് എന്നു വിളിക്കുന്നു ഇപ്പോൾ നമുക്ക് എന്താണ് പാസ് ബാൻഡ് എന്നും എന്താണ് സ്റ്റോപ് ബാൻഡ് എന്നും വ്യക്തമായി സിംഗിൾ ലോ പാസ് ഫിൽറ്റർ സിംഗിൾ ഹൈ പാസ് ഫിൽറ്റർ എന്നിവ കാസ്കേഡ് ചെയ്തിണക്കി ബാൻഡ് പാസ് ഫിൽറ്റർ എളുപ്പത്തിലുണ്ടാക്കാം ഇവിടെയുള്ള ബ്ലോക്ക് ഡയഗ്രം കാണുക ഇവിടെ ഇൻപുട്ട് സിഗ്നൽ ഒരു ഹൈ പാസ് ഫിൽറ്ററുണ്ട് ആംപ്ലിഫിക്കേഷനുണ്ട് ലോ പാസ് ഫിൽറ്ററുണ്ട് ഇവിടെ ഔട്ട്പുട്ടും ഉണ്ട് ഈ പ്രത്യേക ബ്ലോക്ക് ഉൾപ്പെടെ കൂട്ടിച്ചേർത്താൽ ഒരു ആക്ടീവ് ബാൻഡ് പാസ് ഫിൽറ്റർ ആയി എന്തുകൊണ്ടാണ് ആക്ടീവ് ബാൻഡ് പാസ് ഫിൽറ്റർ കാരണം ഇവിടെ ആംപ്ലിഫിക്കേഷൻ ഉൾപ്പെടുന്നുണ്ട് മാത്രമല്ല ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ രൂപകല്പന ചെയ്യുമ്പോൾ ഒരു ഹൈ പാസ് ഫിൽറ്ററും ലോ പാസ് ഫിൽറ്ററും കാസ്കേഡ് ചെയ്യുന്നുണ്ട് ഹൈ പാസ് ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി അഥവ കോർണർ ഫ്രീക്വൻസിയേക്കാൾ ഉയർന്നതായിരിക്കും ലോ പാസ് ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി 3ഡിബി പോയിന്റിൽ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ബാൻഡ് പാസ് ഫിൽറ്ററിന്റെ ബാൻഡ് വിഡ്ത് നിർണയിക്കുന്നത് ഡയഗ്രം കാണുക എന്താണ് ഈ ഫ്രീക്വൻസി fc ഇതാണ് ഒരു fc ഇതാണ് അടുത്ത fc നമ്മൾ ചർച്ചചെയ്യുന്നത് ഈ രണ്ടു പോയിന്റുകളെക്കുറിച്ചാണ് ഹൈ പാസ് ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിയേക്കാൾ ഉയർന്നതായിരിക്കും ലോ പാസ് ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിയെന്ന് നമുക്കറിയാം ഇവിടെ നോക്കൂ ഇതാണ് fL ഇത് fH ഈ ഫ്രീക്വൻസികൾ തമ്മിലുള്ള വ്യത്യാസം ഒപ്പം fH fL ഇവതമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഞാൻ കടത്തിവിടാൻ ആഗ്രഹിക്കുന്ന ഫ്രീക്വൻസികളുടെ ബാൻഡ് 3ഡിബി പോയിന്റിൽ ഈ ഫ്രീക്വൻസികൾ തമ്മിലുള്ള വ്യത്യാസമാണ് ബാൻഡ് വിഡ്ത് നിർണയിക്കുകയെന്ന് നാം കണ്ടു അതായത് ഒരു ഫിൽറ്റർ രൂപകല്പന ചെയ്ത് ഹൈ പാസ് ഫിൽറ്ററിന്റെ ബാൻഡ് വിഡ്ത് അറിയണമെങ്കിൽ ഇത്തരം ഫിൽറ്ററാണ് ഒരുക്കേണ്ടത് ഹൈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി high frequency - low frequency fH fL ആണ് ഫ്രീക്വൻസിയുടെ ബാൻഡ് വിഡ്ത് തരുന്നത് അപ്പോൾ നാം എന്താണ് എഴുതിയത് ഈ പോയിന്റുകൾക്കു പുറത്തുള്ള ഏതൊരു സിഗ്നലിന്റെയും ശേഷി കുറയ്ക്കപ്പെടും അത്തരം ഒരു സിഗ്നലും അനുവദിക്കപ്പെടില്ല ഈ പ്രത്യേക പോയിന്റുകൾക്ക് ഇടയ്ക്കുള്ള സിഗ്നലുകൾ മാത്രം അനുവദിക്കപ്പെടും ഈ ഫ്രീക്വൻസി ബാൻഡ് മാത്രം നമുക്ക് കടത്തിവിടാം ശരിയല്ലേ എനിക്കൊരു പാസീവ് ബാൻഡ് ഫിൽറ്റർ രൂപകല്പന ചെയ്യണമെന്നിരിക്കട്ടെ എന്റെ കൈവശം ഒരു ഹൈ പാസ് ഫിൽറ്റർ സ്റ്റേജ് ഒരു ലോ പാസ് ഫിൽറ്റർ സ്റ്റേജ് എന്നിവയുണ്ടെങ്കിൽ ഇവയെ കൂട്ടിയിണക്കി ഒരു പാസീവ് ബാൻഡ് പാസ് ഫിൽറ്റർ ഉണ്ടാക്കാമല്ലോ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത് നാം ഓർമിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹൈ പാസ് ഫിൽറ്ററിൽ ഇൻപുട്ടിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട് ഒരു കപ്പാസിറ്റർ റെസിസ്റ്ററുമായി സീരീസ് ആയി കൂട്ടിയിണക്കിയിട്ടുണ്ട് ലോ പാസ് ഫിൽറ്ററിൽ റെസിസ്റ്റർ ആണ് കപ്പാസിറ്ററിന്റെ സീരീസിൽ ഉള്ളത് ഹൈ പാസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് അളക്കുന്നത് ഈ റെസിസ്റ്ററിനു കുറുകയൊണ് ലോ പാസിലാകട്ടെ ഔട്ട്പുട്ട് വോൾട്ടേജ് അളക്കുന്നത് കപ്പാസിറ്ററിനു കുറുകെയാണ് അപ്പോൾ ഞാൻ ഇവ രണ്ടിനെയും കൂട്ടിയിണക്കിയാലൽ അതൊരു ബാൻഡ് പാസ് ഫിൽറ്ററാകും ചിത്രം നോക്കുക എന്താണ് ഹൈ പാസ് ഫിൽറ്റർ ഹൈ പാസിന്റെ പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെനിന്ന് ഇവിടെ വരെ ഒരു പാസ് ഉണ്ടാകും ലോ പാസിൽ ആണെങ്കിൽ ഇത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ഞാൻ ഇതിനെയും ഇതിനെയും കൂട്ടിച്ചേർത്താൽ എന്താണ് ലഭിക്കുക അത് പ്ലോട്ട് സി പോലെ ആയിരിക്കില്ലേ അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഹൈ പാസ് എ ലോ പാസ് ബി നാം ഇവ രണ്ടിനെയും കൂട്ടിച്ചേർക്കുന്നു അത് ബാൻഡ് പാസ് ആയ C ആയിത്തീരുന്നു അതാണ് നമ്മൾ ഇവിടെ ചെയ്തത് ശരിയല്ലേ അതായത് ഒരു പാസീവ് ബാൻഡ് പാസ് ഫിൽറ്റർ രൂപകല്പന ചെയ്യാൻ ലോ ഹൈ പാസ് ഫിൽറ്ററുകളെ lowhigh pass filter കാസ്കേഡ് ചെയ്യുന്നു അങ്ങനെ ഒരു ലോ Q ഫാക്ടർ ടൈപ്പ് ഫിൽറ്റർ സർക്യൂട്ട് ലഭിക്കുന്നു അതിന് ഒരു വൈഡ്ബാൻ പാസ് ആണ് ഉള്ളത് അപ്പോൾ ഓരോ ലോ പാസ് ഹൈ പാസ് ഫിൽറ്ററുകളെ low pass high pass filter കാസ്കേഡ് ചെയ്യുമ്പോൾ വൈഡ് ബാൻഡ് പാസ് ഉള്ള ഒരു ലോ ക്യു ഫാക്ടർ ടൈപ്പ് ഫിൽറ്റർ സർക്യൂട്ട് ലഭിക്കുന്നു നിങ്ങൾക്കും ഇതുപോലുള്ള സർക്യൂട്ട് രൂപകല്പന ചെയ്യാം ഇതാണ് നിങ്ങളുടെ ലളിതമായ പാസീവ് ബാൻഡ് പാസ് ഫിൽറ്റർ ഇപ്പോൾ ഒരു സിംപിൾ പാസീവ് ബാൻഡ് ഫിൽറ്റർ ഉള്ളതിനാൽ നമുക്ക് സിമുലേഷൻ ചെയ്തുനോക്കാം ഇവിടെ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ ഗെയിനും ആണുള്ളത് ഗെയിനും ഫ്രീക്വൻസിയും നേർക്കുനേർ വരുന്നതിനാൽ ഔട്ട്പുട്ട് വോൾട്ടേജിൽ സമാനമായൊരു പ്ലോട്ട് ഉണ്ട് കടത്തിവിടാൻ അനുവദിക്കാവുന്ന ഒരു ബാൻഡ് ഉണ്ട് അതിനപ്പുറം കടത്തിവിടാൻ ആവില്ല 3 ഡിബിയിൽ ഈ വാല്യൂവിന് ഏതാണ്ട് അടുത്തായിരിക്കും ആ ബാൻഡ് സിമുലേഷനിൽ ഇതു പരീക്ഷിച്ചശേഷം നാം പറഞ്ഞതത്രയും ശരിയാകുന്നുണ്ടോ എന്ന് ഉറപ്പിക്കുക പാസീവ് കംപോണന്റുകൾ ഉപയോഗിച്ച് ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ രൂപകല്പന ചെയ്യാം എന്നതാണ് നമ്മുടെ പോയിന്റ് നമുക്ക് ബാൻഡ് പാസ് ഫിൽറ്ററിന്റെ ഒരുദാഹരണം എടുക്കാം നിങ്ങൾക്ക് ഒരു പാസീവ് ബാൻഡ് പാസ് ഫിൽറ്റർ രൂപകല്പന ചെയ്യണം അതിന്റെ ലോ കട്ട് ഓഫ് ഫ്രീക്വൻസി 1 കിലോ ഹെർട്സ് ആയിരിക്കണം റെസിസ്റ്ററിന്റെ വാല്യൂ 10 കിലോ ഓം ഹൈ കട്ട് ഓഫ് ഫ്രീക്വൻസി 30 കിലോ ഹെർട്സ് കപ്പാസിറ്റർ 510 പൈകോ ഫാരഡ് എന്നിവ ആയിരിക്കണം ഇതാണ് നിങ്ങൾക്കു തന്നിരിക്കുന്ന ചോദ്യം ഈ വാല്യൂകൾ അനുസരിച്ചുള്ള പാസീവ് ബാൻഡ് പാസ് ഫിൽറ്റർ എങ്ങനെ രൂപകല്പന ചെയ്യാം എന്നു നോക്കാം അപ്പോൾ ആർ 1 കിലോ ഹെർട്സ് ആണ് ലോ കട്ട് ഓഫ് ഫ്രീക്വൻസി 1 കിലോ ഹെർട്സ് റെസിസ്റ്റർ വാല്യൂ 10 കിലോ ഓം അപ്പോൾ നമുക്കു പറയാം R1 10 കിലോ ഓം ആണ് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി fH 30 കിലോ ഹെർട്സ് ആണ് കപ്പാസിറ്റർ സി 510 പൈകോ ഫാരഡും ആണ് അപ്പോൾ എന്തായിരിക്കും ഫോർമുല F1 2πRC അതായത് വാല്യൂകൾ സബ്സ്റ്റിറ്റിയൂട്ട് ചെയ്താൽ C112πfcR 2π x fc അതായത് 1 കിലോ ഹെർട്സ് R അതായത് 10 കിലോ ഓം അങ്ങനെയെങ്കിൽ ലഭിക്കുന്ന വാല്യൂ 15 നാനോ ഫാരഡ് ആണ് 8 നാനോ ഫാരഡ് അല്ലെങ്കിൽ 15 നാനോ ഫാരഡ് മറ്റൊരു ഫോർമുലയായ 12πRC ഉപയോഗിക്കുന്നെങ്കിൽ എനിക്ക് R2 ആണ് നിർണയിക്കേണ്ടതെങ്കിൽ അത് 10 കിലോ ഓം ആയിരിക്കും ഇത്രയും കണ്ടതിൽനിന്ന് നാം മനസിലാക്കിയത് എന്തെന്നാൽ താഴെ നൽകിയിരിക്കുന്ന യൂണിറ്റ് വാല്യൂകളിൽനിന്ന് നമുക്ക് R1 C1 എന്നിവയുടെ വാല്യൂ കണക്കാക്കാം ഹൈ പാസ് സ്റ്റേജിന് 1 കിലോ ഹെർട്സ് കട്ട് ഓഫ് ഫ്രീക്വൻസി നൽകണമെങ്കിൽ R1 C1 എന്നിവയ്ക്കുവേണ്ട വാല്യൂ യഥാക്രമം 10 കിലോ ഓം 15 നാനോ ഫാരഡ് എന്നിങ്ങനെയാണ് അതേസമയം 30 കിലോ ഹെർട്സ് കട്ട് ഓഫ് ഫ്രീക്വൻസിയുള്ള ലോ പാസ് ഫിൽറ്ററിന് R2 C2 എന്നിവയുടെ വാല്യൂ 10 കിലോ ഓം 510 പൈകോ ഫാരഡ് എന്നിങ്ങനെയായിരിക്കും അപ്പോൾ നമുക്ക് ഈ വാല്യൂകൾ കണക്കാക്കാൻ കഴിയും ഇവയിൽനിന്ന് നമുക്കൊരു പാസീവ് ബാൻഡ് പാസ് ഫിൽറ്റർ രൂപകല്പനചെയ്യാനാവും ഞാൻ ഇവിടെ പറയുന്നതു മാത്രം ആശ്രയിക്കാതെ അളവുകൾ സ്വയം എടുക്കാൻ എല്ലായ്പ്പോഴും ശ്രമിക്കണം ഒരു അധ്യാപകൻ പറയുന്നതു മാത്രമാണ് ശരി എന്നു കരുതരുത് നമ്മളിവിടെ പറയുന്നതിൽനിന്ന് നിങ്ങൾ വാല്യൂകൾ കണക്കാക്കി ശരിയാണോ തെറ്റാണോ എന്നുറപ്പിക്കണം എവിടെയെങ്കിലും തെറ്റുണ്ടെന്നു ബോധ്യപ്പെട്ടാൽ തിരുത്തുക നമ്മളിവിടെ കണ്ട രണ്ടു ഫോർമുലകളിലൂടെയാണ് വാല്യൂകൾ കണ്ടെത്തിയത് So now you know how to design a RC passive band pass filter what if I have a simple active band pass filter I will need a high pass I will need a low pass and I have to use an active means an op amp Here I am using a non inverting amplifier again So you see you have a high pass filter at stage one you have a low pass filter at stage 2 and then you have your non inverting amplifier here We apply this input signal to the non inverting terminal of the amplifier ഒരു ആർസി പാസീവ് ബാൻഡ് പാസ് ഫിൽറ്റർ എങ്ങനെയാണ് രൂപകല്പന ചെയ്യുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്റെ കൈവശം ഒരു സിംപിൾ ആക്ടീവ് ബാൻഡ് പാസ് ഫിൽറ്റർ ഉണ്ടെന്നിരിക്കട്ടെ ഇനി എന്തൊക്കെയാണ് വേണ്ടിവരിക ഒരു ഹൈ പാസ് ഒരു ലോ പാസ് ഒപ്പം ഒരു ആക്ടീവ് അതായത് ഒരു ഓപ് ആംപ് എന്നിവ ആവശ്യമുണ്ട് ഇവിടെ വീണ്ടും ഞാനൊരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറാണ് ഉപയോഗിക്കുന്നത് നാം ആംപ്ലിഫയറിന്റെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് ഈ ഇൻപുട്ട് സിഗ്നൽ നൽകുന്നു അതായത് ഹൈ പാസ് ലോ പാസ് എന്നിവയെ കാസ്കേഡ് ചെയ്ത് ഹൈ പാസിനെ ആംപ്ലിഫിക്കേഷനുമായി കൂട്ടിയിണക്കി അതിനെ ലോ പാസിലേക്ക് കണക്ട് ചെയ്താൽ നമുക്കൊരു സിംപിൾ ആക്ടീവ് ബാൻഡ് പാസ് ഫിൽറ്റർ ലഭിക്കും വ്യക്തമല്ലേ എന്താണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ വശം ഹൈ പാസ് ഫിൽറ്റർ ലോ പാസ് ഫിൽറ്റർ ആംപ്ലിഫയർ എന്നിവയുണ്ട് നമ്മൾ അവയെ യഥാവിധം കൂട്ടിയിണക്കുമ്പോൾ ഒരു ആക്ടീവ് ബാൻഡ് പാസ് ഫിൽറ്റർ ലഭിക്കുന്നു ലോ പാസ് ഹൈ പാസ് എന്നിവയെ കാസ്കേഡ് ചെയ്യുമ്പോൾ വൈഡ് പാസ് ബാൻഡ് ഉള്ള ഒരു ലോ ക്യു ഫാക്ടർ ടൈപ്പ് ഫിൽറ്റർ സർക്യൂട്ട് ലഭിക്കുന്നുവെന്ന് നാം നേരത്തേ കണ്ടുവല്ലോ ഇങ്ങനെയാണ് നാം ആക്ടീവ് ബാൻഡ് പാസ് ഫിൽറ്റർ നിർമിക്കുന്നത് ഇനി നമുക്ക് റെസണന്റ് ഫ്രീക്വൻസി നോക്കാം എന്താണ് റെസണന്റ് ഫ്രീക്വൻസി ഇവിടെ നോക്കൂ ഇത്തരം ഒരു പ്ലോട്ടിൽ ഇവിടെ fL ഒപ്പം fH എന്നിവയുണ്ട് fH നു മുകളിൽ ഉള്ള ഫ്രീക്വൻസി കടന്നുപോകാൻ അനുവദിക്കില്ല അതേപോലെ fL നു താഴെയുള്ള ഫ്രീക്വൻസിയും കടത്തിവിടില്ല ഈ ഒരു ഫ്രീക്വൻസി മാത്രമാണ് കടത്തിവിടുന്നത് അതുകൊണ്ടാണ് ഇതിനെ പാസ് ബാൻഡ് എന്നു വിളിക്കുന്നത് ഇത് സ്റ്റോപ് ബാൻഡ് അനുവദിക്കില്ല fc ആണ് സെന്റർ ഫ്രീക്വൻസി ഇവിടെ കാണിച്ചിരിക്കുന്ന ഫേസ് ഷിഫ്റ്റ് പരിഗണിക്കുക fc fL fH എന്നിവയ്ക്ക് അനുസൃതമായാണ് അത് ഔട്ട്പുട്ട് ഗെയിൻ പരമാവധിയിൽ ഉള്ള സെന്റർ ഫ്രീക്വൻസി അഥവാ റെസണന്റ് ഫ്രീക്വൻസി എങ്ങനെയാണ് കിട്ടുന്നത് ലോവർ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസികളുടെ ജ്യോമെട്രിക് മീൻ കണക്കാക്കിയാണ് അതു കിട്ടുന്നത് ഒന്നുകൂടി വിശദമായി നോക്കാം fH ഇൻടു fL ന്റെ സ്ക്വയർ റൂട്ടാണ് ആണ് fR ഇവിടെ fR ആണ് റെസണന്റ് ഫ്രീക്വൻസി fH അപ്പർ 3ഡിബി കട്ട് ഓഫ് ഫ്രീക്വൻസിയും fL ലോവർ 3ഡിബി കട്ട് എഫ് ഫ്രീക്വൻസിയുമാണ് ഇപ്പോൾ റെസണന്റ് ഫ്രീക്വൻസി കണ്ടെത്താനുള്ള ഫോർമുല നമുക്കറിയാം ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ എങ്ങനയെന്നു നോക്കാം കട്ട് ഓഫ് ഫ്രീക്വൻസികൾ നേരത്തേ കണക്കാക്കി വച്ചത് ഓർമിക്കുക fL 1 കിലോ ഹെർട്സും fH 30 കിലോ ഹെർട്സും ആയിരുന്നല്ലോ ഇനി സെൻട്രൽ റെസണന്റ് ഫ്രീക്വൻസി fR എത്രയെന്നു കണക്കാക്കു അതിനുള്ള ഫോർമുല നമുക്ക് അറിയാം അത് fH ഇൻടു fL ന്റെ സ്ക്വയർ റൂട്ട് ആണ് നമുക്ക് വാല്യൂകൾ പകരംവച്ചാൽ അതായത് fR 1 കിലോ ഹെർട്സ് fH 30 കിലോ ഹെർട്സ് വീതം നൽകിയാൽ റെസണന്റ് ഫ്രീക്വൻസി അഥവാ സെൻട്രൽ ഫ്രീക്വൻസി 5 477 കിലോ ഹെർട്സ് ലഭിക്കും നമ്മുടെ പരീക്ഷണം തുടരാം ഇനി പിസ്പൈസ് ഉപയോഗിക്കാം ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ നമ്മുടെ വശം ഒരു നോൺ റണ്ണിംഗ് ആക്ടീവ് ബാൻഡ് പാസ് ഫിൽറ്ററുണ്ട് നിങ്ങൾക്ക് ബയാസ് വോൾട്ടേജ് കാണാം ഒപ്പം ലോ പാസ് ഫിൽറ്റർ ഹൈ പാസ് ഫിൽറ്റർ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്നിവ ഇവിടെ കാണാം നമ്മൾ ഇവ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ രു കർവ് അല്ലെങ്കിൽ സിഗ്നൽ കാണാം ഇനി കണ്ടെത്തേണ്ടത് fH fL എന്നിവയാണ് ഈ ഫ്രീക്വൻസി എത്രയാണ് ഒപ്പം ഇത് എത്രയാണ് ഇത് 3ഡിബിയിൽ ആയിരിക്കും നിങ്ങൾ ഇതു സോൾവ് ചെയ്താൽ fL അഥവാ f1 500 ഹെർട്സ് ആണെന്നും fH അഥവാ f2 1 5 കിലോ ഹെർട്സ് ആണെന്നും വ്യക്തമാകും ഇത്തരം ചോദ്യങ്ങൾക്ക് പിസ്പൈസ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്താനാവും നാം കാണുന്ന വിധത്തിലുള്ള ഉപകരണങ്ങൾ ആവശ്യമില്ല എന്നതാണ് പിസ്പൈസിന്റെ മുൻതൂക്കം വീണ്ടും ചിത്രം നോക്കിയാൽ ഇതാണ് ആക്ടീവ് ബാൻഡ് പാസ് ഫിൽറ്റർ ഇൻവെർട്ടിംഗ് കോൺഫിഗറേഷൻ നമുക്ക് ഈ ഫോർമുല വീണ്ടും നോക്കാം fC112πRC1 ഇതൊരു ഇൻവെർട്ടിംഗ് ഓപ് ആംപ് ആയിരിക്കേ നിങ്ങളുടെ വോൾട്ടേജ് ഗെയിൻ മൈനസ് R2 ബൈ R1 ആയിരിക്കും മുമ്പ് നോൺ ഇൻവെർട്ടിംഗ് ബാൻഡ് പാസ് ഫിൽറ്റർ ആയിരുന്നു ഇതക് ഇൻവെർട്ടിംഗ് ബാൻഡ് പാസ് ഫിൽറ്റർ ആണ് നിങ്ങൾക്ക് ഫിൽറ്ററിംഗിന് ഒപ്പം സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഇൻവെർട്ടിംഗ് അഥവാ നോൺ ഇൻവെർട്ടിംഗ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിക്കാം നമുക്ക് ഒരു ഉദാഹരണംകൂടി നോക്കിയ ശേഷം യഥാർഥ പരീക്ഷണത്തിലേക്കു പോകാം ചിത്രം 14 ലേതുപോലെ ഹയർ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസികൾ കണക്കാക്കുകയാണ് നമുക്കുവേണ്ടത് നമുക്ക് ഈ ചിത്രമാണ് നൽകിയിരിക്കുന്നതെന്നു കരുതുക fL fH എന്നിവയാണ് നാം കണ്ടെത്തേണ്ടത് സർക്യൂട്ടിൽ നൽകിയിരിക്കുന്ന മറ്റു വാല്യൂകൾ അടിസ്ഥാനമാക്കി നാം എങ്ങനെയാണ് ഈ രണ്ടു ഫ്രീക്വൻസികൾ കണ്ടുപിടിക്കുക ചിത്രം കാണുക R1 C2 R2 C3 എന്നിവ നൽകിയിട്ടുണ്ട് ഇനി fC112πR1C2 fC212πR2C3 എന്നിവ കാണുക ഇതിൽനിന്നും C2 0 1 മൈക്രോ ഫാരഡ് ആണെന്നും R1 10 കിലോ ഓംസ് ആണെന്നും അറിയാം 159 19 ഹെർട്സ് എന്ന വാല്യൂ ആണ് എനിക്ക് ലഭിച്ചത് R1 1 കിലോ ഓം C3 0 1 മൈക്രോ ഫാരഡ് എന്നിങ്ങനെ ആയിരിക്കേ എനിക്ക് 1 591 കിലോ ഹെർട്സ് എന്ന വാല്യൂ കിട്ടി എന്തുകൊണ്ടാണ് മൈനസ് R2 ബൈ R1 ഇതൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയതിനാലാണ് അത് അപ്പോൾ ഗെയിൻ മൈനസ് R2 ബൈ R1 അഥവാ അത് 1 ബൈ 10 ആണ് ഗെയിൻ 0 1 ആണ് മൈനസ് 0 1 എന്ന് എഴുതരുത് അതു തെറ്റാണ് അപ്പോൾ നമ്മൾ എന്താണ് മനസിലാക്കിയത് നമുക്ക് ഈ ഫോർമുല അതായത് 12πRC അറിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയും ഒരു സർക്യൂട്ട് ൽകിയ ശേഷം ഈ പ്രത്യേക ഫിഗറിൽനിന്ന് അപ്പർ ലോവർ കട്ട് ഓഫ് ഫ്രിക്വൻസി കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്കത് വളരെ എളുപ്പത്തിൽ സാധിക്കും ആംപ്ലിഫയറിന്റെ ഗെയിനും ഇതിൽനിന്നു കണ്ടെത്താം ഹൈ പാസ് ഫിൽറ്ററും ലോ പാസ് ഫിൽറ്ററും പാസീവ് രീതിയിൽ കൂട്ടിയിണക്കി ഒരു പാസീവ് ബാൻഡ് പാസ് ഫിൽറ്റർ രൂപകല്പനചെയ്യുന്ന രീതി നാം കണ്ടു ഹൈ പാസ് ഫിൽറ്ററിനും ലോ പാസ് ഫിൽറ്ററിനും ഇടയ്ക്ക് ഒരു ഓപ് ആംപ് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു ആക്ടീവ് ഹൈ പാസ് ഫിൽറ്റർ ആകുമെന്നും നമുക്കറിയാം ഈ ഓപ് ആംപിനു പകരം നിങ്ങൾക്ക് നോൺ ഇൻവെർട്ടിംഗ് ഓപ്പറേഷണൽ ആംപ്ലിഫയറോ ഇൻവെർട്ടിംഗ് ഓപ്പറേഷണൽ ആംപ്ലിഫയറോ ഉപയോഗിക്കാം ഇങ്ങനെ നോൺ ഇൻവെർട്ടിംഗ് അല്ലെങ്കിൽ ഇൻവെർട്ടിംഗ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിക്കുമ്പോൾ ഗെയിൻ കണ്ടെത്തുന്നതിനുള്ള ഫോർമുല അല്പം വ്യത്യാസപ്പെട്ടിരിക്കും ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറുകൾക്ക് അത് R2R1 അല്ലെങ്കിൽ RfRin ആിരിക്കും നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറുകളുടെ കാര്യത്തിൽ അത് 1Rf Rin ആയിരിക്കും ഫ്രീക്വൻസിക്ക് ഉള്ള ഫോർമുല f12πRC ആണ് ഹൈ പാസ് ഫിൽറ്റർ ലോ പാസ് ഫിൽറ്റർ എന്നിവയുടെ കാര്യത്തിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ ആർ ലോ പാസ് ഫിൽറ്ററിന്റേതാണ് ഫീഡ്ബാക്ക് റെസിസ്റ്ററുകൾ കപ്പാസിറ്റർ എന്നിവയും കണക്കാക്കണം വാല്യൂ ഏതായാലും നിങ്ങൾക്ക് fH fL എന്നിവ ലഭിച്ചാൽ fH ൽ നിന്ന് fL കുറച്ചാൽ കിട്ടുന്ന വാല്യൂ ആണ് നിങ്ങളുടെ ബാൻഡ് പാസ് ഫിൽറ്ററിന്റെ ബാൻഡ് വിഡ്ത് ഇത്രയും വച്ച് അടുത്ത മൊഡ്യൂളിൽ നാം ഒരു പരീക്ഷണം തുടരും പ്രതിവാരം അല്പസമയം മാറ്റിവച്ച് നിങ്ങൾ മുമ്പു പഠിച്ച തിയറികൾ വീഡിയോകളിലൂടെ കൂടുതൽ വ്യക്തമായി മനസിലാക്കാൻ ശ്രമിക്കണം അങ്ങനെയാവുമ്പോൾ ഈ തിയറികളെക്കുറിച്ച് കൂടുതൽ സമയം വിവരിക്കേണ്ടിവരില്ല അതേസമയം നിങ്ങൾ സ്വയം എല്ലാം അറിയാമെന്നു കരുതേണ്ടെന്നും ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ബാൻഡ് പാസ് ഫിൽറ്ററിനെക്കുറിച്ച് ആവർത്തിച്ചു പറയേണ്ടിവന്നത് എന്താണ് പാസീവ് ബാൻഡ് ഫിൽറ്റർ എന്താണ് ആക്ടീവ് പാസ് ഫിൽറ്റർ ഇവ രണ്ടും എങ്ങനെ രൂപകല്പന ചെയ്യാം എന്നീ കാര്യങ്ങൾ നാം മനസിലാക്കി അടുത്ത മൊഡ്യൂളിൽ നാം ഇത് ബ്രെഡ്ബോർഡിൽ ചെയ്തുനോക്കും അതിലൂടെ നമുക്ക് ഇൻപുട്ട് സിഗ്നലിന്റെയും ഔട്ട്പുട്ട് സിഗ്നലിന്റെയും വാല്യൂകൾ എടുക്കാം ഏതു വിധത്തിലുള്ള ഔട്ട്പുട്ട് വേവ് ഫോം ആണ് ലഭിക്കുന്നതെന്നും നോക്കാം അടുത്ത മൊഡ്യൂളിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം